ഡെറിവേറ്റീവ് ഓഫ് ഫോറിയർ സീരീസ് അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെ ലെക്ചർസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോറിയർ സീരീസിന്റെ ഡെറിവേഷനെക്കുറിച്ചും ഇന്റഗ്രൽ ട്രാൻസ്ഫോംസിനെക്കുറിച്ചുമാണ് അതിനാൽ ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് ചർച്ചചെയ്യും കാരണം അത് ഫൊറിയർ സീരീസ് നിർമ്മിക്കുന്നതിന് ആവശ്യമാണ് രണ്ടാമത് നമ്മൾ ഫൊറിയർ സീരീസിന്റെ ഡെറിവേഷനിലേക്ക് പോകും ഒന്നോർത്തുനോക്കുക കഴിഞ്ഞ ലെക്ചരിൽ നമ്മൾ ട്രിഗണോമെട്രിക് സിസ്റ്റത്തെ കുറിച് വളരെ വിശദമായി ചർച്ച ചെയ്തു അതിനാൽ ഇത് ഒരു പൊതു ട്രിഗണോമെട്രിക് സിസ്റ്റമാണ് ഇതിന് 1 ഉം അതിനുശേഷം cos 𝝥xl sin 𝝥xl തുടർന്ന് 2 തവണ പിന്നെ 2 തവണ പിന്നെ 3 തവണ മുതലായവ അതിനാൽ ഈ പ്രവർത്തനങ്ങളുടെ കോമൺ പിരീഡ് 2l ആണ് അതാണ് നമ്മൾ ചർച്ച ചെയ്തത് പിന്നെ അത്തരം ഒരു ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ വിവിധ ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ഏറ്റവും പ്രധാനമായി നമുക്ക് എന്താണുള്ളതെന്നുവച്ചാൽ ഈ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിലെ ഏതെങ്കിലും രണ്ട് വ്യത്യസ്ത അംഗങ്ങളുടെ ഉൽപന്നം −l മുതൽ l വരെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മൂല്യം 0 ആയിരിക്കുമ്പോൾ m ≠ n ആണ് കാരണം രണ്ടുപേരും ഈ m ഉം n ഉം കോസ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്m ഉം n ഉം വ്യത്യസ്തമാണ് ഈ കേസിൽ ഈ ഇന്റെഗ്രേലിന്റെ മൂല്യം 0 എന്ന നമുക്ക് ലഭിക്കും കൂടാതെ m n ആകുമ്പോൾ അടിസ്ഥാനപരമായി അവർ ഒരേ അംഗമാണ് ആ സാഹചര്യത്തിൽ ഇത് l ആയി വരുന്നുഅതിനാൽ ഇത് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ കണ്ടെത്തിയതാണ് അതുപോലെ നമുക് സൈൻ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളുണ്ട് അതിനാൽ വീണ്ടും m n എന്നിവ വ്യത്യസ്തമാണെങ്കിൽ മൂല്യം 0 ആണ് അതിനാൽ ഈ സിസ്റ്റത്തെ ഓർത്തോഗണൽ എന്ന് നമ്മൾ വിളിക്കുന്നു m n എങ്കിൽ നമുക്ക് ഈ മൂല്യം l ന് തുല്യമാണ് മറ്റൊരു ഫലം ഈ രണ്ട് വ്യത്യസ്ത അംഗങ്ങളായ സൈനും കൊസൈനും m ഉം n ഉം എന്തുതന്നെയായാലും മൂല്യം 0 ആയിരിക്കും കൂടാതെ നമ്മൾ പറഞ്ഞു ഒരു തവണ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷനെ അതിന്റെ ഇന്റെഗ്രേണ്ട് ആയിട്ട് കാണുകയാണെങ്കിൽ −l മുതൽ l വരെ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് 2l ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാൽ ഈ പിരീഡിന്റെ ദൈർഘ്യം 2l ആണ് അതിനാൽ മൂല്യം തുല്യമായിരിക്കും കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് 1 നോടൊപ്പം അതെ വിഭാഗത്തിലെ മറ്റേതെങ്കിലും അംഗത്തെ വീണ്ടും എടുത്താൽ ഫലം 0 ആയിരിക്കും അതിനാൽ ഈ ട്രിഗണോമെട്രിക് സിസ്റ്റം ഓർത്തോഗണൽ ആണ് അതിനാൽ ഇന്നത്തെ ലെക്ചറിൽ ഫൊറിയർ സീരീസ് നിർമ്മിക്കുമ്പോഴോ ഫൊറിയർ സീരീസ് ഡിറൈവ് ചെയ്യുമ്പോഴോ അത്തരം ഇന്റഗ്രലുകളെ നേരിട്ട് വിലയിരുത്തുന്നതിന് ഇത് ഉപയോഗപ്രദമാകും അതിനാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന്റെ തുടർച്ചയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക അതിനെ ഇന്റർവെൽ a b യുടെ തുടർച്ചയായി കണക്കാക്കുന്നു ഈ രണ്ട് പോയിന്റുകൾ a b എന്നിവയ്ക്കിടയിൽ പരിമിതമായ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ t1t2 tn എന്നിങ്ങനെ നിരവധി പോയിന്റുകൾ വിളിക്കുന്നു a ക്കും b ക്കും ഇടയിൽ n പോയിന്റുകൾ ഉണ്ടെന്ന് കരുതുക ഈ പോയിന്റുകളുടെ പ്രോപ്പർട്ടി എന്താണ് അതിനാൽ ഇപ്പോൾ ഓരോ ഓപ്പൺ ഇന്റെർവെലിലും f കണ്ടിന്യൂസ് ആണ് അതായത് at1 t1t2 അല്ലെങ്കിൽ t2t3 ഇങ്ങനെ മാത്രമല്ല നമുക്കിവിടെ അവസാന ഇന്റർവെൽ ഉണ്ട് അത് tnb ആണ് അതിനാൽ ഈ ഓരോ സബ് ഇന്റെർവെലിലും പ്രവർത്തനം തുടരുന്നു കൂടാതെ ഇനിപ്പറയുന്ന പരിധികൾ നിലവിലുണ്ടെങ്കിൽ ഈ പരിധികൾ എന്തൊക്കെയാണ് ഇടത് പോയിന്റിലെ വലതു കൈ പരിധിയാണ് ഒന്ന് കാരണം നമ്മൾ സംസാരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ a b യെ കുറിച്ചാണ് അതിനാൽ ഈ അറ്റത്ത് നമ്മൾ a യിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വലതു കൈ പരിധിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ b യെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും നമുക്ക് ഈ a യും b യും ഉണ്ട് അതിനാൽ ഈ അവസാന ഭാഗത്തു നമ്മൾ ഇവിടെ ഇടത് പരിധിയെക്കുറിച്ചാണ് പറയുന്നത് കൂടാതെ ഇതിനിടയിലുള്ള എല്ലാ പോയിന്റിലും നമുക്കുള്ളത് tj ആണ് അതിനാൽ ഇരുവശത്തും പരിധി ഉണ്ടാവണം അതിനാൽ അവിടെയുള്ള എല്ലാ j യ്ക്കും വലതു കൈ പരിധിയും ഇടത് കൈ പരിധിയും ഉണ്ടായിരിക്കണം അതിനാൽ ഓരോ ഉപവിഭാഗത്തിലും ഓപ്പൺ സബ്ഇന്റർവൽ ഫംഗ്ഷൻ തുടർച്ചയായി നിലനിൽക്കുന്നതും ഈ പരിധി നിലനിൽക്കുന്നതുമായ അത്തരം നിരവധി പോയിന്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ഫംഗ്ഷനെ കണ്ടിന്യൂസ് എന്ന് വിളിക്കുന്നു കാരണം ഇത് ഡിസ്കണ്ടിന്യൂയിറ്റിയുടെ പോയിന്റുകളാണ് പ്രധാനമായും t1t2 തുടങ്ങിയവ പക്ഷെഓപ്പൺ ഇന്റർവൽ at1 t1t2 tn b എന്നിവയുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും മാത്രമല്ല ഏറ്റവും പ്രധാനമായി ഈ പരിധികൾ നിലനിൽക്കണംഅതിനാൽ അവസാന പോയിന്റിൽ പരിധി നിലനിൽക്കുകയും കൂടാതെ ഈ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ അത് നിർവചിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ പരിധി നിലനിൽക്കും അതിനാൽ ഇത്തരം അവസരങ്ങളെയാണ് പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് അതിനാൽ പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഈ ക്ലാസ് തീർച്ചയായും കണ്ടിന്യൂസ് ഫംഗ്ഷനേക്കാളും വലുതാണ് കാരണം ഡിസ്കണ്ടിന്യൂസ് ആയതോ നിർവചിക്കപ്പെടാത്തതോ ആയ നിരവധി പോയിന്റുകൾ ലഭിക്കാൻ നമ്മൾ ഇവിടെ കാത്തിരിക്കേണ്ടി വരുന്നു പക്ഷേ വലതു വശത്തുനിന്നും ഇടതുവശത്തുനിന്നും ഓരോ പോയിന്റിലും പരിധി നിലനിൽക്കണം അവസാന പോയിന്റുകളിൽ അതിനാൽ വലതുവശത്ത് ഇടത് പരിധി നിലനിൽക്കുകയും ആരംഭ പോയിന്റിൽ a യിൽ ഇടത് കൈ പോയിന്റ് ശരിയായ പരിധി നിലനിൽക്കുകയും വേണം അതിനാൽ ഈ സവിശേഷതകൾ ഉള്ളതിനാൽ അത്തരമൊരു പ്രവർത്തനത്തെ നമ്മൾ പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു കൂടാതെ ഓർമിക്കുക f നെ 0 ക്ലോസ്ഡ് ആയ ഇന്റർവൽ 0 ∞ ലെ പീസ്വേസ് കണ്ടിന്യൂസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് ഇന്റർവൽ0 b ൽ പീസ്വേസ് ആയിരിക്കും മാത്രമല്ല b എന്നത് പോസിറ്റീവ് ആയ ഏതൊരു യഥാർത്ഥ സംഖ്യ ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ 0 ∞ യുടെ പീസ്വേസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നു 0 b ൽ ഈ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ b പോസിറ്റീവ് റിയൽ സംഖ്യകളുടെ കൂട്ടത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പീസ്വേസ് കണ്ടിന്യൂയിറ്റി നമ്മൾ പീസ്വേസ് കണ്ടിന്യൂയിറ്റിയുടെ ചില ഉദാഹരണങ്ങളിലേക്ക് പോകും കൂടാതെ അതുകഴിഞ്ഞ് നമ്മൾ ഫോറിയർ സീരീസിന്റെ ഡെറിവേഷനിലേക്ക് പോകും അതിനാൽ ഇതൊരു ഫംഗ്ഷൻ f ആണ് ഇതിനെ വിശദമാക്കിയിരിക്കുന്നത് x −π ൽ ഇത് 3 യും x π ൽ ഇത് 2 വും ആണ് കൂടാതെ ഇതിനിടയിലും π മുതൽ 1 വരെയും പിന്നീട് 1 മുതൽ 2 വരെയും ഈ ഫംഗ്ഷനെ x2 എന്നും പിന്നെ 1 − x2 എന്നും വിശദീകരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ −π പോയിന്റ് നോക്കിയാൽ −πൽ ഉള്ള ഫംഗ്ഷന്റെ മൂല്യം അവിടെ 3 ആണ് വലതുവശത്ത് നിന്ന് പരിമിതപ്പെടുത്തുന്ന മൂല്യം നോക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ ഇത് π2 ആയിരിക്കും അതിനാൽ തീർച്ചയായും ഫംഗ്ഷൻ −π ൽ ഡിസ്കണ്ടിന്യൂസ് ആണ് അതുപോലെ 1 ലും കാരണം ഇടത് വശത്ത് നിന്ന് നോക്കിയാൽ മൂല്യം 1 ആയിരിക്കും എന്നാൽ വലതുവശത്ത് നിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഇത് കൃത്യമായി ഇവിടെ നിർവചിച്ചിരിക്കുന്നത് 0 ആണ് അതുപോലെ നമുക്ക് 2 ലും ഡിസ്കണ്ടിന്യൂസ് ആണ് അതിനാൽ ഇവിടെ ഈ പോയിന്റുകളെല്ലാം അത് π അല്ലെങ്കിൽ അത് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഈ എല്ലാ പോയിന്റുകളും ഡിസ് കണ്ടിന്യൂസ് ആണ് അതിനാൽ ഈ ഫംഗ്ഷൻ നമുക്ക് പീസ്വേസ് കണ്ടിന്യൂസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാകുമോ എന്ന് ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ പീസ്വേസ് കണ്ടിന്യൂസ് പോയിന്റുകൾ മാത്രമല്ല ഡിസ്കണ്ടിന്യൂസ് പോയിന്റുകളും നമുക്കുണ്ടെന്ന് നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് പക്ഷേ ഓരോ ഉപ ഇടവേളയിലും പരിധികളും പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇവിടെ −π മുതൽ 1 വരെ അതിന്റെ x2 ഇത് കണ്ടിന്യൂസ് ആണ് ഇവിടെയും ഇത് കണ്ടിന്യൂസ് ആണ് അതിനാൽ ഓരോ ഓപ്പൺ ഇന്റെർവെല്ലിലും അത് −π മുതൽ 1 വരെയായാലും അല്ലെങ്കിൽ അത് 1 മുതൽ 2 ആയാലും അല്ലെങ്കിൽ 2 മുതൽ π വരെ ആയാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും അതിനാൽ ഓപ്പൺ ഇന്റെർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്നുള്ള പ്രോപ്പർട്ടി നല്ലതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പരിധിയാണ് അതിനാൽ ഇവിടെ ഈ എല്ലാ പോയിന്റുകളിലും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് ഒരു −π ആണോ അതോ 1 ആണോ അതോ 2 അല്ലെങ്കിൽ π ആണോ പരിധി നിലനിൽക്കണോ എന്ന് അതിനാൽ ഈ പോയിന്റിൽ നമ്മൾ വലതു കൈയുടെ പരിധി നോക്കും കാരണം ഫംഗ്ഷൻ നിർവ്വചിച്ചിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് വലത്തേയ്ക്ക് −π വരെ മാത്രമാണ് അതിനാൽ ഇവിടെ ഈ പരിധി നോക്കിയാൽ ഇത് വെറും π2 ആണ് അതിനാൽ ഇത് നിലവിലുണ്ട് 1 ൽ ഇടത് കൈ പരിധി 1 ഉം വലതു കൈ പരിധി 0 ഉം ആയിരിക്കും അതിനാൽ ഈ 1 പോയിന്റിൽ നമുക്ക് രണ്ട് പരിധികളും ഉണ്ട് വീണ്ടും സമാനമായി പോയിന്റ് 2 ൽ നമുക്ക് ഇടതു കൈയിൽ നിന്ന് അത് 1 22 ആണ് അതിനാൽ ഇത് 1 4 ആണ് അത് −3 ആണ് കൂടാതെ വലത് വശത്ത് നിന്ന് ഈ പരിധി എടുക്കുമ്പോൾ ഇത് വെറും 2 ആണ് ഇത് ഒരു കോൺസ്റ്റന്റ് ആണ് അതിനാൽ ഇവിടെയും നമുക്ക് പരിധിയുണ്ട് കൂടാതെ π ൽ നമ്മൾ ഇടതു വശത്ത് നിന്ന് പരിഗണിക്കും അങ്ങനെ അത് 2 ആണ് അതിനാൽ അകത്തുള്ള പോയിന്റുകളിലെ ഈ എല്ലാ പോയിന്റുകളിലും പരിധികൾ ഇടത് കൈ വലത് കൈ പരിധികൾ എന്നിവ നിലനിൽക്കുന്നു അതിനാൽ ഈ പരിമിതികളെല്ലാം നിലനിൽക്കുന്നു അതിനാൽ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതിയതുപോലെ പീസ്വേസ് കണ്ടിന്യൂസ് ആണ് ഓരോ ഡിസ്കണ്ടിന്യൂയിറ്റി പോയിന്റിലും ഫംഗ്ഷന് ഇരുവശത്തുനിന്നും ഒരു വശമുള്ള പരിധിയുണ്ട് കൂടാതെ അവസാന പോയിന്റുകളിലും −π അല്ലെങ്കിൽ π വലത് ഇടത് എന്നിവ യഥാക്രമം നിലനിൽക്കുന്നു അതിനാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അതിനാൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതിന് സമാനമായ മറ്റൊരു ഫംഗ്ഷൻ നമ്മൾ പരിഗണിക്കും അതിനാൽ ഇവിടെ t2 0 മുതൽ 1 വരെയും അതിനുശേഷം നമുക്ക് 1 മുതൽ 2 വരെയും 3 t വരെയും തുടർന്ന് 2 മുതൽ 3 വരെയും ആണെങ്കിൽ ഫംഗ്ഷൻ t 1 ആയി നിർവചിക്കപ്പെടുന്നു അതിനാൽ വീണ്ടും ഓരോ ഓപ്പൺ സബ് ഇന്റർവെല്ലിലും 0 മുതൽ 1 വരെ അല്ലെങ്കിൽ 1 മുതൽ 2 വരെ അല്ലെങ്കിൽ 2 മുതൽ 3 വരെ എന്നിങ്ങനെ ആയതിനാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് കാരണം ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് t2 3 t t 1എന്നിങ്ങനെയാണ് പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആദ്യ പ്രോപ്പർട്ടി തൃപ്തികരമാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ പരിമിതികൾ ചർച്ച ചെയ്യാനുണ്ട് അതിനാൽ വീണ്ടും 0 ൽ നമ്മൾ 0 ൽ വലത് പരിധി എടുക്കുകയാണെങ്കിൽ ഇത് 0 ആയിരിക്കും 1 ൽ നമുക്ക് രണ്ട് അവസാന പരിധികളും ഉണ്ട് ഇവിടെ ഇത് ഇടത് നിന്ന് 1 ആണ് വലത് വശത്ത് നിന്ന് 2 ആണ് കൂടാതെ 2ൽ ഇത് 1ആണ് ഇടത് കൈയിൽ നിന്നും പിന്നീട് വലതിലേക്കും അത് 3 ആകും വീണ്ടും 3 ൽ നമുക്ക് ഇടത് കൈ പരിധി കണക്കാക്കാം അത് 4 നൽകും അതിനാൽ ഡിസ്കണ്ടിന്യൂയിറ്റിയുടെ എല്ലാ പോയിന്റിലും വലത് ഇടത് പരിധി നിലനിൽക്കുന്നു അതിനാൽ ഈ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ആണ് ഈ അവസാന പോയിന്റിലും വലത് ഇടത് പരിധി നിലനിൽക്കുന്നു അതിനാൽ വീണ്ടും ഈ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ആണ് ഇത് പീസ്വേസ് അല്ലെന്നതിന്റെ ഒരു ലളിതമായ ഉദാഹരണമാണിത് ഇത് പീസ്വേസ് കണ്ടിന്യൂസ് അല്ല മാത്രമല്ല ഈ ഫംഗ്ഷൻ 0 ആണ് ഇവിടെ x നമുക്ക് 0 ക്കും 1 നും ഇടയിലാണ് ഇത് x−n ആണ് n ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് അതിനാൽ ഈ കേസിൽ ഈ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് അല്ല അതിന്റെ കാരണം വ്യക്തമാണ് കാരണം ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് x 0 ഒഴികെ അതുകൊണ്ട് പ്രശ്നം x 0 ൽ ആണ് കാരണം x 0 ക്കും 1 നും ഇടയിലാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് പ്രശ്നം ഒന്നും ഉണ്ടാകുന്നില്ല പ്രശ്നം x 0 ൽ ആണ് അതിനാൽ x 0 ൽ എന്താണ് പ്രശ്നം നമ്മൾ ഇവിടെ x 0 എന്ന പരിധി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ വലതു വശത്ത് നിന്ന് എടുക്കേണ്ടതാണ് കാരണം ഫംഗ്ഷൻ നൽകിയിരിക്കുന്നത് 0 1 ൽ ആണ് അതിനാൽ ഈ അതിർത്തിയിൽ 0 ലെ ഇടത് അതിർത്തിയിൽ നമ്മൾ 1xn പോലെയുള്ള പരിധി എടുക്കണം n എന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ് അതിനാൽ x 0 ലേക്ക് പോകുമ്പോൾ ഈ പരിധി ∞ ലേക്ക് പോകുന്നു അതിനാൽ നമുക് ഇവിടെ പരിമിതമായ പരിധി ഇല്ല പരിധിയോടുകൂടിയ ഈ ഫംഗ്ഷൻ ∞ ലേക്ക് പോകുന്നു അതാണ് ഇത് പീസ്വേസ് കണ്ടിന്യൂസ് അല്ലാത്തതിന് കാരണം കാരണം ഈ പരിമിതികളെല്ലാം പരിമിതമായി നിലനിൽക്കണമെന്ന് നിർവചിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ ഇത് x01xn നിലവിലില്ലാത്തതിനാൽ ഈ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് അല്ല പീസ്വേസ് കണ്ടിന്യൂറ്റിയുടെ മറ്റൊരു ഉദാഹരണം നോക്കാം ഈ ഫംഗ്ഷൻ f 1t−1 കൂടാതെ ഈ കേസിലും സമാനമായ ഒരു പ്രശ്നമുണ്ട് ഈ ഫംഗ്ഷനിലെ പ്രശ്നം t 1 എന്നതിനാണ് t 1ഒഴികെ മറ്റെല്ലാ ഫംഗ്ഷനും പീസ്വേസ് കണ്ടിന്യൂസ് ആണ് പക്ഷേ ഈ പോയിന്റ് 1 അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ t 1 എന്നതിനോട് അടുക്കുമ്പോൾ ഇടത് വലത് കൈ പരിധി വീണ്ടും നിലനിൽക്കില്ല അതിനാൽ ഇവിടെ നമുക്ക് 1 ൽ പ്രശ്നമുണ്ട് 1 അടങ്ങുന്ന ഒരു ഇന്റർവെല്ലിലും ഫംഗ്ഷനും പീസ്വേസ് കണ്ടിന്യൂസ് ആയിരിക്കില്ല കാരണം ഈ പരിധി വലത് കൈയിൽ നിന്നും ഇടത് കൈയിൽ നിന്നുമുള്ള പ്ലസ് 1 മുതൽ t യിലേക്ക് അടുക്കുന്നില്ല രണ്ട് പരിധികളും ഇവിടെ നിലനിൽക്കുന്നില്ല കൂടാതെ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രാധാന്യം എന്താണെന്നതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം പറയാം അതിനാൽ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി പരിധിയാണ് അതിനാൽ ഫംഗ്ഷൻ പരിമിതമാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചതിന് കാരണം ഓരോ ഘട്ടത്തിലും രണ്ട് അറ്റങ്ങളിൽ നിന്നും പരിധി നിലനിൽക്കുന്നുവെന്ന് നമുക് ഉറപ്പാക്കുവാനാണ് കൂടാതെ ഓരോ ഓപ്പൺ ഇന്റർവെല്ലിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അതിനാൽ ഈ പരിധിയുടെ ഗതി ഉറപ്പുനൽകുന്നു കൂടാതെ ഈ പരിധിയുടെ ഫലമായി ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ ഇന്റെഗ്രേബിലിറ്റിയും ഉറപ്പുനൽകുന്നു അതിനാൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ ആ ഇന്റർവെല്ലിൽ പരിമിതപ്പെടുത്തുകയും അത് ആ ഇന്റർവെല്ലിൽ ഇന്റഗ്രറ്റ് ചെയ്യുകയും ചെയ്യും അതിനാൽ ഈ രണ്ട് പ്രോപ്പർട്ടികളും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളാണ് ഈ നല്ല പ്രോപ്പർട്ടിയെ അടിസ്ഥാനമാക്കി നമ്മൾ ഫോറിയർ സീരീസ് നിർമ്മിക്കാൻ നോക്കുന്നു വാസ്തവത്തിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനെക്കുറിച്ച് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടികളെല്ലാം സാധുവാണ് എന്നാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ മാത്രം നടത്താൻ നമ്മൾ വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അതിനാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചത് ഇവിടെയാണ് കാരണം അവയ്ക്ക് ഈ ഇന്റെഗ്രേബിലിറ്റിയും പരിമിതിയും ഉണ്ട് കൂടാതെ മറ്റൊരു നല്ല പ്രോപ്പർട്ടി കൂടി ഉണ്ട് f1 ഉം f2 ഉം രണ്ടു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷനും അവയുടെ പ്രോഡക്റ്റും പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും അതിനാൽ നമുക് രണ്ടു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ f1 ഉം f2 ഉം ഉണ്ട് മാത്രമല്ല അവയുടെ പ്രോഡക്റ്റും പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് പ്രോഡക്റ്റ് മാത്രമല്ല ലീനിയർ കോമ്പിനേഷനും അതിനർത്ഥം നമ്മൾ ചില യഥാർത്ഥ സംഖ്യകളായ c1f1 c2f2 കൊണ്ട് ഗുണിച്ചാൽ ഈ പ്രോഡക്റ്റും ഈ കോമ്പിനേഷനും കണ്ടിന്യൂസ് ആണ് അതിനാൽ മുൻപത്തെ ലെക്ചറിൽ നിന്നും ട്രിഗണോമെട്രിക് സീരീസിലെ ഈ ഓർത്തോഗോണാലിറ്റിയെക്കുറിച്ചും തുടർന്ന് ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്നതിനെക്കുറിച്ചുള്ള അറിവുംവച്ചു ഒരു ഫോറിയർ സീരീസ് നിർമ്മിക്കാൻ നമ്മൾ തയ്യാറാണ് അതിനാൽ ഈ ഫോറിയർ സീരീസ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞാൻ ആരംഭിക്കാം f ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കരുതുക കണ്ടിന്യൂസ് ഫംഗ്ഷനെ നമ്മൾ വിശദീകരിക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുന്നു അതിനാൽ നമുക് പീസ്വേസ് കണ്ടിന്യൂസ് ആയ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ഉണ്ട് പീരിയോഡിക് ഫംഗ്ഷനെക്കുറിച്ച കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ വിശദീകരിച്ചതാണ് അതിനാൽ ഈ ഇന്റർവെല്ലിൽ നിർവ്വചിക്കുക π മുതൽ π വരെ ഇനിപ്പറയുന്ന ട്രിഗണോമെട്രിക് സീരീസ് വിപുലീകരണം ഉണ്ടെന്നാണ് ഈ ഫംഗ്ഷനും അതിന്റെ ട്രിഗണോമെട്രിക് സീരീസ് വിപുലീകരണവും മറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും അതിനാൽ ഈ f ന് ഇവിടെയുള്ള ട്രിഗണോമെട്രിക് സീരീസിൽ അത്തരം വിപുലീകരണമുണ്ടെന്ന് കരുതുക കൂടാതെ ഈ ശ്രേണി എങ്ങനെയാണ് f മായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും ഇവിടെ എന്താണ് ഈ കോഎഫിഷ്യന്റ് എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കാരണം ഈ സീരീസിൽ എന്താണ് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ഇവിടെ എന്താണ് മാറ്റാൻ കഴിയുക ഇവയാണ് ഈ കോഎഫിഷ്യന്റ്സ് കാരണം കോസ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് സൈൻ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് അതിനാൽ ഈ ഫംഗ്ഷൻ f മായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ ഈ കോഎഫിഷ്യന്റുകളുമായി ബന്ധപ്പെടുത്തേണ്ടത് അതിനാൽ തന്നിരിക്കുന്ന കോഎഫിഷ്യന്റുകളെ ഈ ഫംഗ്ഷൻ f മായി ബന്ധപ്പെടുത്തുക അതിനാൽ ഈ സീരീസ് ചില അർത്ഥത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയും ഏത് അർത്ഥത്തിലാണ് ഈ ഫംഗ്ഷൻ f അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടും അതിനാൽ ഇപ്പോൾ ഈ കോഎഫിഷ്യന്റ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഫംഗ്ഷനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആശയം അതിനാൽ ബന്ധപ്പെടുത്താൻ നമ്മൾ ഇപ്പോൾ എന്തുചെയ്യും മേൽപ്പറഞ്ഞ സീരീസിനെ ടേം അനുസരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഏറ്റവും പ്രധാനമായി അതിന്റെ ഇന്റഗ്രൽ −π മുതൽ π വരെയുള്ള ഫംഗ്ഷന്റെ സമഗ്രതയ്ക്ക് തുല്യമാണ് അതിനാൽ ഈ സീരീസിന്റെ അവിഭാജ്യമെന്ന് നമ്മൾ അനുമാനിക്കുന്നത് ഈ പദത്തെ ടേം അനുസരിച്ച് സംയോജിപ്പിക്കുമ്പോൾ ആ ഇന്റഗ്രലിന്റെ മൂല്യം ഈ ശ്രേണിയിലെ f ന്റെ സമഗ്രതയ്ക്ക് തുല്യമാണ് π മുതൽ π വരെ അതിനാൽ ഈ അനുമാനത്തിലൂടെ നമുക്ക് f എന്ന ഫംഗ്ഷനും ഈ സീരീസിലെ ഗുണകങ്ങളും തമ്മിലുള്ള ബന്ധം ലഭിക്കും അതിനാൽ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ −π മുതൽ π f dx വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു കൂടാതെ നമ്മൾ വലതു വശവും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ ഇവിടെ ആദ്യ പദം π മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾa02dxആണ്പിന്നെ രണ്ടാമത്തെ പദം കൂടി അതിനാൽ മറ്റെല്ലാ പദങ്ങളും π മുതൽ π വരെ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അതിനാൽ ഈ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിന്റെ ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമുക്ക് 1 ഉം ഈ cos kx ഉള്ള പ്രോഡക്റ്റും ഉണ്ട് നമുക്കും അതേ അവസ്ഥയാണ് 1 ഉം sin kx ഉള്ള പ്രോഡക്റ്റും ആണ് 1 ഉം ഇതും ഇവിടെ ഓർത്തോഗണൽ ആണ് 1 ഉം സൈനും ഓർത്തോഗണൽ ആണ് ഇത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ സംസാരിച്ചതാണ് അതിനാൽ ഇത് 0 ആകും മാത്രമല്ല ഇതും 0 ആകും ഇപ്പോൾ ഇവിടെ എന്താണുള്ളത്a02 കൂടാതെ ഇന്റഗ്രൽ 2π ആകും അതിനാൽ 2 ഇവിടെ ഒഴിവാകും നമുക് ഇവിടെ ഒരു a0π ഉണ്ട് അതിനാൽ വലതുവശത്ത് a0π മാത്രമാണ് അതിനാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ഈ a0 കണക്കാക്കാം ഈ a0 തന്നിരിക്കുന്ന ഫംഗ്ഷനുമായി നമുക്ക് ബന്ധപ്പെടുത്താം അതിനാൽ ഈ a0 1 ആണ് കൂടാതെ ഈ f ന്റെ റേഞ്ച് π മുതൽ π വരെയാണ് അതിനാൽ ഈ അനുമാനത്തിലൂടെf ന്റെ ഇന്റഗ്രലിന്റെ മൂല്യം 2200 സീരീസിലെ ഇന്റഗ്രലിന്റെ മൂല്യത്തിന് തുല്യമാണ് ഈ f വച്ചു a0 കണക്കാക്കാനുള്ള വഴി ഇപ്പോൾ നമുക്കുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇത് വീണ്ടും ചർച്ച ചെയ്യും ഈ സീരീസിന് തുല്യമാണ് f എന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല ഇത് f ന്റെ ഒരു പ്രതിനിധാനമാണെന്ന് നമ്മൾ പറയുന്നു നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായ ബന്ധത്തെക്കുറിച്ചല്ല എല്ലാത്തിനെയും കുറിച്ചാണ് ഇത് ഒരു വിപുലീകരണമോ അല്ലെങ്കിൽ ഈ f എന്നതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യമോ ആണ് കൂടാതെ ഏതുതരം പ്രാതിനിധ്യവും ആ ചോദ്യവും ഇപ്പോഴും തുറന്നിരിക്കുന്നു അടുത്ത ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യും പക്ഷേ സീരീസിനും f ഫംഗ്ഷനും ഇടയിൽ നമ്മൾ ഇവിടെ തുല്യതയോ മറ്റോ നൽകുന്നില്ലെന്ന് വ്യക്തമായിരിക്കണം പക്ഷേ ഈ a0 ന്റെ കണക്കുകൂട്ടലിനുള്ള ഞങ്ങളുടെ അനുമാനമാണ് ഇത് എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് തുല്യമാണ് f ന്റെ ഇന്റഗ്രൽ സീരീസിന്റെ ഇന്റെഗ്രേലിനു തുല്യമാണ് അതിനാൽ നമുക്ക് ഇവിടെയുള്ള ആദ്യ തുല്യത അത് ഇപ്പോൾ സീരീസും ഫംഗ്ഷനും അതിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ അനുമാനങ്ങളോടെ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും ഇത് രണ്ടും തുല്യമാണെന്ന് അനുമാനിച്ചുകൊണ്ട് ഫംഗ്ഷനും സീരീസും ഇന്റഗ്രേറ്റ് ചെയ്താൽ ഫംഗ്ഷനുമായി a0 ന്റെ ഒരു ബന്ധം നമുക്ക് ലഭിക്കും അടുത്തതായി നമ്മൾ സീരീസിനെ cos nx കൊണ്ട് ഗുണിച്ചാൽ അതുകഴിഞ്ഞ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക് ഊഹിക്കാം വീണ്ടും അതിന്റെ മൂല്യം ഇന്റെഗ്രേലിന് തുല്യമാണെന്ന് അനുമാനിച്ചാൽ വീണ്ടും f നെ - π മുതൽ π വരെ അതെ ഫംഗ്ഷൻ cos nx കൊണ്ട് ഗുണിക്കുക അതിനാൽ ആദ്യം മുമ്പത്തെ സ്ലൈഡിൽനമ്മൾ f നെയും സീരീസിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ സീരീസിനെ cos nx കൊണ്ട് ഗുണിക്കുന്നു കൂടാതെ ഫംഗ്ഷനെയും നമ്മൾ cos nx കൊണ്ട് ഗുണിക്കുന്നു അതുകഴിഞ്ഞ് - π മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു കൂടാതെ ak′s യും bk′s യും ആയിട്ടുള്ള ബന്ധം കണ്ടുപിടിക്കുകയെന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനാൽ നമുക് നോക്കാം ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക് f ഉം cos nx dx ഉം ഉണ്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തേത് 0 ആകും കാരണം അത് a02 ഇന്റഗ്രൽ - π മുതൽ π വരെ ആണ് അതുകഴിഞ്ഞ് നമുക് cos nx dx ഉണ്ട് വീണ്ടും ഓർത്തോഗോണാലിറ്റിയുടെ അതേ കാരണത്താൽ ഇത് 0 ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ആദ്യത്തെ ഇന്റഗ്രൽ 0 ആകും തുടർന്ന് നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഉണ്ട് നമുക്ക് ഈ ഇന്റഗ്രൽ ഉണ്ട് നമുക്ക് ഈ ഇന്റഗ്രൽ ഉണ്ട് രണ്ടാമത്തെ ഇന്റെഗ്രേലിൽ നമുക്ക് കോസ് ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും ഉണ്ട് ഇവ ഓർത്തോഗണൽ ഫംഗ്ഷനുകളാണെന്ന് നമുക്കറിയാം അതിനാൽ ഇത് 0 ആയിരിക്കും അതിനാൽ ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ ആദ്യത്തേതിൽ ഉപേക്ഷിക്കും അതിനാൽ ഇത് ഇവിടെ 0 ആണ് ആദ്യത്തേതിൽ ഈ k ഇവിടെ വ്യത്യാസപ്പെടുന്നു k 1 2 3 മുതലായവയിൽ വ്യത്യാസപ്പെടുന്നു കൂടാതെ ഈ ലെക്ചറിന്റെ തുടക്കത്തിൽ തന്നെ നമുക് ലഭിച്ച ഫലം ഓർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ cos nx ഉം ചില k യും ഉണ്ടാകുമെന്നും k n ആകുമെന്നും ഞാൻ സംഗ്രഹിച്ചു അതിനാൽ ഇത് cos nx dx ആകും ഈ പദം നിലനിൽക്കും ഓർത്തോഗോണാലിറ്റിയുടെ വാദത്തോടുകൂടിയ മറ്റെല്ലാ നിബന്ധനകളും വീണ്ടും ഈ ഇന്റഗ്രൽ 0 ആകും ഈ cos nx ഉം ഈ cos nx ഉം ഉള്ളപ്പോൾ ഒഴികെ കാരണം k 1 മുതൽ ∞ വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് അതേ n നെക്കുറിച്ചാണ് ഇതിനകം എന്താണ് ഉള്ളത് cos nx ആണ് അതിനാൽ ഒരേ ഫംഗ്ഷന്റെ ഈ പ്രോഡക്റ്റ് നമ്മുടെ പക്കലുള്ളപ്പോൾ മൂല്യം ആ സാഹചര്യത്തിൽ π ആയിരുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ വെറും ഒരു π ആയി കുറയും അങ്ങനെ വീണ്ടും രണ്ടാമത്തേത് 0 ആണ് അതിനാൽ ഇവിടെ നിന്നും നമുക്ക് ഇത് 1 ന് തുല്യമായി ലഭിക്കും കൂടാതെ π മുതൽ π വരെ ഇന്റഗ്രൽ f cos nx dx ആയിരിക്കും n 1 2 3 എന്നിങ്ങനെ പോകും അതിനാൽ കോഎഫിഷ്യന്റ്കളുമായുള്ള ഫംഗ്ഷന്റെ മറ്റൊരു ബന്ധം നമുക് കിട്ടി കൂടാതെ n ഏതെങ്കിലും സംഖ്യ 1 2 3 മുതലായവ ആകാം അതിനാൽ നമുക് ഇതിനകം രണ്ട് ബന്ധങ്ങൾ ലഭിച്ചു ഒന്ന് a0 ഫംഗ്ഷനും സീരീസും ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്കത് ലഭിച്ചു കൂടാതെ മറ്റൊന്ന് cos nx കൊണ്ട് സീരിസിനെ ഗുണിക്കുകയും പിന്നീട് π മുതൽ π വരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ലഭിച്ചു അതിനാൽ ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും Cos nx ന് പകരം sin nx കൊണ്ട് നമ്മൾ ഗുണിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നേരത്തെ ചെയ്ത സമാനമായ വാദം ഉപയോഗിച്ച് നമുക്ക് bn ലഭിക്കും ഈ കേസിൽ ആദ്യത്തെ ഇന്റഗ്രൽ രണ്ടാമത്തേതിൽ നിന്ന് നഷ്ടപ്പെടും നമുക്ക് ഇവിടെ കോഎഫിഷ്യന്റ് ലഭിക്കും bn അതായത് sin nx dx അതിനാൽ ഈ എല്ലാ കോഎഫിഷ്യന്റും bn an a0 എന്നിവ ഫംഗ്ഷനുമായി അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ഫംഗ്ഷനുമായി നമ്മൾ ഇപ്പോൾ ബന്ധിപ്പിക്കുന്നു അതിനാൽ ചില അർത്ഥത്തിൽ നമ്മുടെ പ്രാതിനിധ്യം ഫംഗ്ഷനെ ഏകദേശമാക്കുന്നു കാരണം അവയുടെ ഇന്റഗ്രൽ തുല്യമാണ് നിങ്ങൾ cos nx കൊണ്ട് ഗുണിക്കുമ്പോൾ അവയുടെ ഇന്റഗ്രൽ തുല്യമാണ് നമ്മൾ sin nx കൊണ്ട് വീണ്ടും ഗുണിക്കുമ്പോൾ f ന്റെ ഇന്റഗ്രേലും മറ്റൊരു വശം നോക്കുമ്പോൾ സീരീസും തുല്യമാണ് അതിനാൽ അവ ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ നമ്മൾ ഈ കോഎഫിഷ്യന്റുകൾ കണ്ടെത്തി ശരി ചുരുക്കത്തിൽ നമുക്ക് ട്രിഗണോമെട്രിക് സീരീസ് വിപുലീകരിക്കണം നമുക്ക് a0 ലഭിച്ചുനമുക്ക് an ലഭിച്ചു കൂടാതെ നമുക്ക് ഈ bn ലഭിച്ചു എന്ന് അനുമാനിച്ചുകൊണ്ട് അവയുടെ ഇന്റഗ്രൽ തുല്യമാണ് അല്ലെങ്കിൽ cos nx sin nx എന്നിവയുടെ ഗുണനത്തിനു ശേഷം അവ തുല്യമാണ് എന്ന് പറയാം അതിനാൽ ഈ സീരീസ് ഉള്ളതിനാൽ ഇപ്പോൾ ഈ കോഎഫിഷ്യന്റുകൾ an a0 a1 a2 a3 മുതലായവ അവയെ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ എന്നും ഇവിടെ ഈ സീരീസിനെ ഫോറിയർ സീരീസ് എന്നും വിളിക്കുന്നു ഇതിനെ ഫോറിയർ സീരീസ് എന്നും ഇവയെ ഫൊറിയർ കോഎഫിഷ്യന്റ്സ് എന്നും വിളിക്കുന്നു ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടത് ഇതിന് ചില കോൺസ്റ്റന്റ് ഉണ്ട് നമുക് a02 ൽ തുടങ്ങാം ഈ a02 കൃത്യമായി ഇവിടെ നിന്ന് വരിക എന്നതായിരുന്നു ലക്ഷ്യം n 1 2 3 മുതലായവയ്ക്ക് സാധുതയുള്ള ഈ രണ്ട് ഫോർമുല നോക്കിയാൽ ഈ a0 വെവ്വേറെ ഉരുത്തിരിഞ്ഞതാണെങ്കിലും അവസാനം ഈ ഫോർമുല കൂടുതൽ പൊതുവായതാണെന്ന് നമ്മൾ തിരിച്ചറിയും ഇത് a0 ഉം കവർ ചെയ്യുന്നു കാരണം n 0 ആണെങ്കിൽ cos 0 1 ആണെങ്കിൽ നമുക്ക് കൃത്യമായി n 0 ഈ ഫോർമുലയുണ്ട് അതിനാൽ നമുക് ഈ മൂന്ന് ഫോർമുല ഉണ്ടായിരിക്കേണ്ടതില്ല നമുക്ക് ഇത് 0 1 2 മുതലായവയ്ക്ക് സാധുതയുള്ളതും 1 2 3 മുതലായവയ്ക്ക് സാധുതയുള്ളതുമായ ഈ bn ഉം ലഭിക്കും അതിനാൽ ഇത് ഇപ്പോൾ നമുക് ആവശ്യമില്ല അതാണ് നമ്മൾ a02 ഉപയോഗിച്ച് ആരംഭിക്കേണ്ടതിന്റെ കാരണം നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് a0 എടുക്കുകയാണെങ്കിൽ a0 ഫോർമുല മറ്റുള്ളവയേക്കാൾ വ്യത്യസ്തമായിരിക്കും പൊതുവേയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ′′ ചിഹ്നത്തിന് പകരമായി ഒരിക്കലും ഈ ′ ′ ചിഹ്ന൦ ഉപയോഗിക്കില്ല ഈ സീരീസിൽ അത് കോൺസ്റ്റാന്റിൽ നിന്നും വ്യക്തമാണ് കാരണം ഈ കോൺസ്റ്റാന്റിനെ നിർണയിക്കുന്നത് ഇന്റെഗ്രേലിനെ സമന്വയിപ്പിച്ചാണ് മൂന്ന് ഇന്റഗ്രൽ ഒന്ന് ആദ്യമേ ഇന്റഗ്രൽ ആയിരുന്നത് മറ്റൊന്ന് cos nx ഉം sin nx ഉം കൊണ്ട് ഗുണിക്കുമ്പോൾ ആകുന്നത് അതിനാൽ വ്യക്തമായും നമുക്ക് അവിടെ തുല്യത ഉണ്ടായിരിക്കില്ല പക്ഷേ അവയുടെ ഇന്റഗ്രൽ തുല്യമാണ് ഈ പ്രക്രിയയിൽ രണ്ട് ഇന്റഗ്രൽ തുല്യമാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് സീരീസിന് തുല്യമാണെന്ന് സൂചിപ്പിക്കുന്നില്ല അടുത്ത ലെക്ചറിൽ ഫംഗ്ഷനും അതിന്റെ ട്രിഗണോമെട്രിയും അല്ലെങ്കിൽ ഫൊറിയർ സീരീസും തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് തുല്യത കൈവരിക്കാൻ കഴിയുക എന്ന് നമ്മൾ ചർച്ച ചെയ്യും രണ്ടാമത്തേത് ഫൊറിയർ സീരീസിന്റെ പ്രത്യേകതയാണ് പരിമിതമായ എണ്ണം പോയിന്റുകളിൽ നമ്മൾ ഫംഗ്ഷന്റെ മൂല്യം മാറ്റുകയാണെങ്കിൽ കാരണം നമ്മൾ ഈ കോഎഫിഷ്യന്റ് കണക്കുകൂട്ടുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് കൂടാതെ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ an bn നമുക് ഇന്റഗ്രൽ ഉണ്ട് ഇന്റഗ്രൽ മൂല്യം നിർവചിച്ചിരിക്കുന്ന ഫംഗ്ഷൻ കണക്കാക്കില്ല അവ മൂല്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ഫംഗ്ഷന്റെ മൂല്യം പരിമിതമായ പോയിന്റുകളിൽ മാറ്റുകയും കൂടാതെ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ നിർവ്വചിക്കുന്നതും മാറ്റമില്ലാത്തതുമാണ് അതിനാൽ നിരവധി പോയിന്റുകളിൽ വ്യത്യാസമുള്ള ഫംഗ്ഷനുകൾക്ക് കൃത്യമായി ഒരേ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ ഉണ്ട് അതിനാൽ നമുക് അതാത് ഫൊറിയർ സീരീസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് പല പോയിന്റുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അവയുടെ ഫൊറിയർ സീരീസ് അല്ലെങ്കിൽ അവയുടെ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ ഒന്നുതന്നെയായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് രണ്ട് പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷനുകളും f g എന്നിവയുടെ ഫൊറിയർ സീരീസും സമാനമാണെങ്കിൽ പരിമിതമായ എണ്ണം പോയിന്റുകൾ ഒഴികെ അവ തുല്യമായിരിക്കണം അത് ഒരു പരാമർശമായിരുന്നു ലെക്ചർ തയ്യാറാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച റഫറൻസുകളാണിത് അതിനാൽ ഈ ലെക്ചറിൽ നമ്മൾ ചർച്ചചെയ്തത് −π മുതൽ π അല്ലെങ്കിൽ 0 മുതൽ 2π വരെ നിർവ്വചിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഫോറിയർ സീരീസാണ് മാത്രമല്ല ഇത് 2π പിരീഡിനൊപ്പം പീരിയോഡിക് ആണ് തുടർന്ന് അതിനെ ഈ ഫോറിയർ സീരീസും ഈ കോഎഫിഷ്യന്റുകളും കൊണ്ട് പ്രതിനിധീകരിക്കാം ഫൊറിയർ കോഎഫിഷ്യന്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവ ഈ ഇന്റഗ്രലുകളുടെ സഹായത്തോടെ വിലയിരുത്താവുന്നതാണ് കൂടാതെ ഇവിടെ നമുക്ക് തുല്യതയില്ലെന്ന് നമ്മൾ ഇവിടെ വീണ്ടും പരാമർശിക്കേണ്ട ഒരു പ്രധാന കാര്യം കാരണം ഈ കോഎഫിഷ്യന്റുകളുടെ നിർമ്മാണം നടത്തുന്നത് ഇവിടെയുള്ള സീരീസ് ഫങ്ക്ഷന്റെ നേരിട്ടുള്ള തുല്യതയല്ല ഇന്റെഗ്രേലിന്റെ തുല്യതയെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഞാൻ ഈ ലെക്ചർ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി